ഡിസാസ്റ്റർ റിക്കവറി ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ രാം സതീഷ് പശുപുലേത്തി ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിആർആറിന് പ്രസക്തമായ ചില ഫ്രെയിംവർക്സിനെ കുറിച്ചാണ് അത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആണ് ഇത് തിയററ്റിക്കൽ അണ്ടർസ്റ്റാന്ഡിങ് മുതൽ പ്രോജക്റ്റ് അതിന്റെ ഇമ്പ്ലിമെന്റേഷൻ ആസ്പെക്ടസ് അതുപോലെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് പ്രോസസ്സ് എന്നിവയെ ഉൾക്കൊള്ളുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഫ്രെയിംവർക്സ് എന്തായാലും അത് ജോൺ ട്വിഗ്ഗിന്റെ വിവിധ ഫ്രെയിംവർക്സിന്റെയും ധാരണകളുടെയും ഒരു വലിയ സമാഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്രത്യേകിച്ച് ഡിസാസ്റ്റർ റിസ്ക് റീഡക്ഷൻ ഇത് ഗ്ലോബൽ പ്രാക്ടീസ് റിവ്യൂവിൽ വോളിയം 9 ലും ഹ്യൂമാനിറ്റേറിയൻ പ്രാക്ടീഷണർ കമ്മീഷൻ ചെയ്ത ഹ്യൂമാനിറ്റേറിയൻ പ്രാക്ടീസ് നെറ്റ്വർക്കിലും പ്രസിദ്ധീകരിച്ചു UCL ബാർട്ട്ലെറ്റിന്റെ ഭാഗമായ ജോൺ ട്വിഗ്ഗും ഞാനും കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു തീർച്ചയായും 1980 കൾ മുതൽ വളരെ മുമ്പുതന്നെ ചർച്ച ചെയ്യപ്പെട്ട ചില ഫ്രെയിംവർക്സ് ഉണ്ട് എന്നാൽ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത് നിലവിലുള്ള എല്ലാ സാഹിത്യങ്ങളും തിയററ്റിക്കൽ അണ്ടർസ്റ്റാന്ഡിങ് ടെർമിനോളജിസ് ഇന്സ്ടിട്യൂഷനൽ നെറ്റ് വർക്സ് അതിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് ഭാഗം കമ്മ്യൂണിറ്റി അസറ്റ് മാനേജ്മെന്റ് എന്നിവയിൽ നിന്ന് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന ഒരു വലിയ ഡോക്യൂമെന്റിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു എന്നതാണ് അതിനാൽ ഒരു സമഗ്രമായ സമീപനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ച വൈവിധ്യമാർന്ന സ്കീമുകൾ ഉണ്ട് ഒന്നാമതായി ദുരന്തസാധ്യതയുടെ പശ്ചാത്തലത്തിൽ നിന്നും വികസ്വര രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യയെപ്പോലുള്ള ദാരിദ്ര്യവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങൾ ഇവിടെ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനൊപ്പം ദാരിദ്ര്യനിർമാർജനത്തിന്റെ വെല്ലുവിളിയും നമുക്കുണ്ട് അതിനാൽ ഈ മുഴുവൻ പ്രോസസും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇത് ഗ്ലോബൽ ഡ്രൈവേഴ്സിൽനിന്ന് ആരംഭിക്കുന്നു കാരണം ഒന്നാമതായി നമ്മൾ മുഴുവൻ ഭൂമിശാസ്ത്രവും അസമമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു സമ്പന്ന രാജ്യങ്ങളുണ്ട് ദരിദ്ര രാജ്യങ്ങളുണ്ട് വിഭവസമൃദ്ധമായ രാജ്യങ്ങളുണ്ട് വിഭവശേഷിയില്ലാത്ത രാജ്യങ്ങളുണ്ട് അവയ്ക്ക് യഥാർത്ഥത്തിൽ വളരെ വൈവിധ്യമാർന്ന സാമ്പത്തിക സൂചകങ്ങളുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മാക്രോ ലെവൽ വീക്ഷണകോണിൽ നിന്നും അതിന്റെ മെസോ ലെവൽ വശത്തിൽ നിന്നും ഭരണത്തിലേക്കും പരിമിതമായ എൻഡോജെനസ് കപ്പാസിറ്റിയിലേക്കും നോക്കുക അതിനാൽ ഭരണം പോലും കാരണം ഒരു പ്രത്യേക വിഭാഗത്തിനോ സമൂഹത്തിനോ എങ്ങനെ ആഘാതങ്ങളും സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയില്ല അവിടെയാണ് ഒരു സിസ്റ്റം പരാജയപ്പെടുന്നത് അങ്ങനെയാണ് ഭരണത്തെക്കുറിച്ച് സമയം സംസാരിക്കുന്നത് ഇവയെല്ലാം യഥാർത്ഥത്തിൽ അടിസ്ഥാന റിസ്ക് ഡ്രൈവറുകൾ രൂപപ്പെടുത്തുന്നു റിസ്ക് ഡ്രൈവേഴ്സിനെക്കുറിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ ദരിദ്രരും നഗരപ്രദേശങ്ങളുമായ പ്രാദേശിക ഭരണത്തെക്കുറിച്ചും ദുർബലമായ ഗ്രാമീണ ഉപജീവന മാർഗങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കാരണം പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനം നിങ്ങൾക്ക് ചുഴലിക്കാറ്റിന്റെയോ വെള്ളപ്പൊക്കത്തിന്റെയോ ആഘാതം ഉണ്ടെന്നും അത് മുഴുവൻ കാർഷിക വ്യവസായത്തെയും കാർഷിക മേഖലയെയും ബാധിച്ചിട്ടുണ്ടെന്നും നമുക്ക് പറയാം എന്നാൽ കുറഞ്ഞ സാമ്പത്തിക വികസന പ്രക്രിയ കാരണം കർഷകർക്ക് അവരുടെ വിളകളുമായി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല അവരുടെ സമ്പദ്വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ വിപണി എങ്ങനെ കുതിച്ചുയരുന്നു ദുർബലമായ ഉപജീവനമാർഗ്ഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഈ എല്ലാ വശങ്ങളും നമുക്ക് പറയാം അതിനാൽ ഈ ദുരന്തങ്ങൾ കാരണം പരിസ്ഥിതി വ്യവസ്ഥയും തകരുന്നു വികസന പ്രക്രിയകളുടെ തുടർച്ചയെന്ന നിലയിൽ ദുരന്തങ്ങൾ മാത്രമല്ല പരിസ്ഥിതിയിലും ആവാസവ്യവസ്ഥയിലും അതിന്റെ സേവനങ്ങളിലും അതിന്റെ സ്വാധീനം വരുന്നു അവ യഥാർത്ഥത്തിൽ എങ്ങനെ നശിപ്പിക്കപ്പെടുന്നു അതാകട്ടെ മനുഷ്യന്റെ ആവാസവ്യവസ്ഥയ്ക്കും ആഗോള കാലാവസ്ഥയ്ക്കും ഒരുതരം മാറ്റാനാകാത്ത നാശം വരുത്തുന്നു റിസ്ക് ട്രാൻസ്ഫർ സോഷ്യൽ പ്രൊട്ടക്ഷൻ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന്റെ അഭാവം അതിനാൽ ഇവയാണ് റിസ്ക് ഡ്രൈവേഴ്സ് അതിനാൽ ദുർബലരായ ജനസംഖ്യയുടെ തീവ്രമായ അപകടസാധ്യതയുള്ള പ്രധാന കേന്ദ്രീകരണങ്ങളും അങ്ങേയറ്റത്തെ അപകടത്തിന് വിധേയമായ സാമ്പത്തിക വാദങ്ങളും നിങ്ങൾ പറയുമ്പോൾ അവർ ഇന്റെൻസീവ് റിസ്ക് ആയി തരംതിരിക്കാൻ ശ്രമിച്ചു അതേസമയം എക്സറ്റൻസീവ് റിസ്ക് എക്സറ്റൻസീവ് റിസ്ക്കിനെക്കുറിച്ചു സംസാരിക്കുമ്പോൾ ദുർബലരായ ആളുകളുടെ ഭൂമിശാസ്ത്രപരമായി ചിതറിക്കിടക്കുന്ന എക്സ്പോഷർ സാമ്പത്തിക ആസ്തികൾ കുറഞ്ഞതോ മിതമായതോ ആയ അപകടസാധ്യതകളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി സംസാരിക്കുന്നത് ദുർബലരായ സമൂഹത്തിന്റെയോ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെയോ അവരുടെ സ്വത്തുക്കളുടെയോ തുറന്ന വശത്തെക്കുറിച്ചാണ് എവരിഡേ റിസ്ക് എവരിഡേ റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം അരക്ഷിതാവസ്ഥ രോഗം കുറ്റകൃത്യങ്ങൾ അപകടങ്ങൾ മലിനീകരണം ശുചിത്വക്കുറവ് ശുദ്ധജലത്തിന്റെ ലഭ്യതക്കുറവ് എന്നിവയ്ക്ക് വിധേയരായ വീടുകളെയും സമൂഹങ്ങളെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും വികസ്വര രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണോ അല്ലയോ എന്ന് പോലും പലരും ഇപ്പോഴും സംശയിക്കുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം ചുറ്റുപാടുമുള്ള അന്തരീക്ഷം അത് കൂടുതൽ സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉറപ്പ് പരിസ്ഥിതി നൽകുന്നില്ല ഇത് കുറ്റകൃത്യമാണോ അപകടമാണോ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം വ്യാവസായിക അപകടമാണോ ഇത് മലിനീകരണ വശമാണോ നിങ്ങൾ ഡൽഹി നഗരത്തിൽ വരുമ്പോൾ തന്നെ അത്തരം മലിനീകരണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നു അല്ലേ അതുപോലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വരൾച്ച പോലെയുള്ള മന്ദഗതിയിലുള്ള ദുരന്തങ്ങൾ ഞങ്ങൾ കാണുന്നു അത് യഥാർത്ഥത്തിൽ വിളകളുടെ കുറവ് എങ്ങനെ നൽകുമെന്നും അത് വിപണികളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നും അത് പാവപ്പെട്ട മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇത് ഒരുതരം എവരിഡേ റിസ്ക് ആണ് ഇത് ഒരു ഇവന്റിലോ മറ്റെന്തെങ്കിലുമോ സംഭവിക്കുന്നത് മാത്രമല്ല വികസ്വര രാജ്യങ്ങൾക്കെങ്കിലും ഇത് ഒരു സാധാരണ പ്രശ്നമാണ് ദാരിദ്ര്യം സാമ്പത്തിക ദാരിദ്ര്യം ശക്തിയില്ലായ്മ ഒഴിവാക്കൽ നിരക്ഷരത വിവേചനം തുടങ്ങിയ മറ്റ് ദാരിദ്ര്യ ഘടകങ്ങൾ ആസ്തികൾ ആക്സസ് ചെയ്യാനും സമാഹരിക്കാനുമുള്ള പരിമിതമായ അവസരങ്ങൾ അതിനാൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് നിരവധി ടെക്നിക്കൽ ഇൻപുട്ടുകൾ ഉണ്ട് ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞങ്ങൾ തമിഴ്നാട്ടിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഒരു വീട്ടിൽ പോയി നോക്കിയപ്പോൾ വീടിനുള്ളിൽ ടോയ്ലറ്റ് പണിതിരിക്കുന്നത് കാണാൻ സാധിച്ചു ചെന്നപ്പോൾ തന്നെ വീടിനുള്ളിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാരണം മത്സ്യത്തൊഴിലാളി സമൂഹം അവർ ചെയ്തത് ഒരു കക്കൂസ് ആണെന്ന് മനസ്സിലായില്ല അവർ അതിൽ മത്സ്യ അഴുക്ക് മുഴുവൻ ഇടാൻ തുടങ്ങി ഇത് ദുർഗന്ധം വമിക്കുകയും അവിടെ ആളുകൾ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിനു പിന്നിലെ കാരണം എന്താണ് ടോയ്ലറ്റ് എന്താണെന്നും ഒരു ടോയ്ലറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അടിസ്ഥാനപരമായി അവരുടെ അവബോധമില്ലായ്മയാണ് അതുപോലെ വ്യത്യസ്ത ജാതി വ്യവസ്ഥകൾ വ്യത്യസ്ത രാഷ്ട്രീയ വ്യവസ്ഥകൾ പോലെയുള്ള ഒരു വ്യവസ്ഥിതിയിൽ അവർ യഥാർത്ഥത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു കൂടാതെ ഉള്ളവനും ഇല്ലാത്തവനും ശക്തിയും സുശക്തമായതും ശക്തിയില്ലായ്മയും കൂടിയാണിത് അതിനാൽ വാസ്തവത്തിൽ വികസന പ്രോസസ്സിലോ വികസനത്തിന്റെ സംഭാഷണത്തിലോ ചില സമൂഹങ്ങൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ റിസ്ക് പ്രോസസ്സുകളാണെന്നും ദാരിദ്ര്യം അതിന്റെ ഒഴിവാക്കപ്പെട്ട വശങ്ങൾ കൂടുതൽ ചേർക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം ഈ അസറ്റുകളിലേക്കും വിഭവങ്ങളിലേക്കും ഉള്ള പ്രവേശനത്തെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ ദുരന്തത്തിന്റെ ആഘാതങ്ങളും ദാരിദ്ര്യ ഫലങ്ങളും ലഭിക്കുന്നത് ഭൂരിഭാഗം മരണവും സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്ന ഇത്തരം അപകട ഘടകങ്ങളുടെ സാഹചര്യത്തിലാണ് ഈ ആളുകൾ ജീവിക്കുന്നത് എന്നതിനാൽ ഡിസാസ്റ്റർ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു സുനാമിയിൽ ജീവൻ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് പറയട്ടെ അവരിൽ പലരും സ്ത്രീകളായിരുന്നു കാരണം അവർക്ക് നീന്താനോ സ്വയം പരിരക്ഷിക്കാനോ പോലും ചില കഴിവുകൾ ഇല്ലായിരുന്നു അവർക്ക് നീന്താനോ സ്വയം പരിരക്ഷിക്കാനോ പോലും ചില കഴിവുകളുടെ അഭാവമാണ് അതിനർത്ഥം ആ പ്രത്യേക ആഘാതത്തെ അഭിമുഖീകരിക്കുന്ന അപകടസാധ്യതയെ അഭിമുഖീകരിക്കുന്നതിൽ അവർക്ക് ഒരു വൈദഗ്ദ്ധ്യം അല്ലെങ്കിൽ പരിമിതമായ അറിവ് മാത്രമേ ഉള്ളെന്നാണ് അങ്ങനെയാണ് ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം പ്രത്യേകിച്ച് വരൾച്ചയോ വെള്ളപ്പൊക്കത്തിന്റെയോ ആഘാതം ആളുകൾക്ക് അവരുടെ കാർഷിക മേഖലകൾ നഷ്ടപ്പെട്ടു പ്രാദേശിക ഭവന അടിസ്ഥാന സൌകര്യങ്ങൾ കന്നുകാലികൾ വിളകൾ എന്നിവയ്ക്ക് നാശം സംഭവിച്ചു ദാരിദ്ര്യത്തിന്റെ അനന്തരഫലങ്ങൾ ദാരിദ്ര്യത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വരുമാനം ഉപഭോഗം ക്ഷേമം സമത്വം എന്നിവയിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഹ്രസ്വ ഇടത്തരം ആഘാതങ്ങളെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത് ജനീവ UNISDR ൽ ചർച്ച ചെയ്ത കാലാവസ്ഥാ വ്യതിയാനത്തിലെ അപകടസാധ്യതയും ദാരിദ്ര്യവും സംബന്ധിച്ച ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള 2009 ലെ ഗ്ലോബൽ അസ്സെസ്സ്മെൻറ് റിപ്പോർട്ടാണിത് ദാരിദ്ര്യം ദുരന്തസാധ്യതയുടെ അവിഭാജ്യ ഘടകമാകുമ്പോൾ വികസ്വര രാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ ഡിസ്കഷനിൽ നിന്ന് ഈ വശം ഒഴിവാക്കാനാവില്ല നമ്മൾ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വ്യക്തമായും നമ്മൾ സംസാരിക്കുന്നത് കഴിവുകളെയും കാര്യപ്രാപ്തിയെയും കുറിച്ചാണ് സമ്പന്നരും ദരിദ്രരുമായ രാജ്യങ്ങളിലെ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ശേഷിയെക്കുറിച്ചാണ് സമ്പന്ന രാജ്യങ്ങളിൽ നടപ്പാക്കപ്പെടുന്ന ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്സ് അവർക്കുണ്ട് ഇവിടെ ദരിദ്ര രാജ്യങ്ങളിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്സ് ദുർബലമാണ് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ അവ നടപ്പിലാക്കാനുള്ള ശേഷി കുറവാണ് 1991 മുതൽ നമുക്ക് തീരദേശ നിയന്ത്രണ മേഖലയുണ്ടെന്നത് സത്യമാണ് 2004 ലെ സുനാമി ഉണർവ് വരെ ഇത് 19 തവണ പരിഷ്കരിച്ചു നിരവധി ഗ്രാമങ്ങളോ നിരവധി പ്രാദേശിക സർക്കാരുകളോ ഈ നിയന്ത്രണം ഉണ്ടെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉയർന്ന വേലിയേറ്റ രേഖയിൽ നിന്ന് 500 മീറ്ററോ 200 മീറ്ററോ അകലെ മാറണം അതിനാൽ ദുരന്തത്തിന്റെ ആഘാതം നേരിടുന്നതുവരെ ഇത് കർശനമായി നടപ്പാക്കില്ല ഇവിടെ അവർക്ക് ഫലപ്രദമായ മുൻകൂർ മുന്നറിയിപ്പും ജീവഹാനി കുറയ്ക്കുന്നതിനുള്ള വിവര സംവിധാനങ്ങളും ഉണ്ട് അതിനാൽ ശക്തമായ രാജ്യത്ത് അവർക്ക് ഈ ഉപകരണങ്ങളും സംവിധാനങ്ങളും ശൃംഖലയും ഉള്ളിടത്ത് നിങ്ങൾക്കറിയാവുന്ന അധികാര വിതരണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അവിടെയാണ് അതെങ്ങനെ സാധിക്കും എങ്ങനെയാണ് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു മേഖലയിലേക്ക് വിവരങ്ങൾ പ്രചരിപ്പിച്ചത് വിവരങ്ങൾ കൈമാറാത്ത ദരിദ്ര രാജ്യങ്ങളിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയും പ്രതികരിക്കാത്ത ആളുകൾ ഇല്ല പ്രീ എംപ്റ്റീവ് പ്രതികരണവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സമഗ്രമായ വിവര സംവിധാനങ്ങളുടെ അഭാവം ശരിയാണ് ഉദാഹരണത്തിന് അതേ സുനാമി തമിഴ്നാട് സംസ്ഥാനത്തിലേക്കോ ദക്ഷിണേന്ത്യൻ ഭാഗത്തേക്കോ എത്താൻ 180 മിനിറ്റെടുത്തു 3 മണിക്കൂറിനുള്ളിൽ തിരമാലകൾ എത്താൻ 3 മണിക്കൂർ എടുത്തു 180 മിനിറ്റ് ആ വിവരങ്ങൾ കൈമാറുകയും ആ വിവരങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനം ജില്ലാ തലം പ്രാദേശിക തലം എന്നിവയിലേയ്ക്ക് എത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഒരുപാട് ജീവൻ രക്ഷിക്കുമായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ നിരവധി കന്നുകാലികളെയും മൃഗങ്ങളെയും രക്ഷിച്ചു അടിയന്തര പ്രതികരണവും മെഡികെയർ സംവിധാനങ്ങളും വളരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വികസന പരിപാടികൾക്കുള്ള ഫണ്ട് അടിയന്തര സഹായത്തിനും വീണ്ടെടുക്കലിനും വകയിരുത്തുക ഇവിടെ അവർക്ക് കൂടുതൽ ഫണ്ടുകളുണ്ട് കൂടാതെ ഈ പ്രത്യേക ദുരന്തങ്ങൾ ബാധിക്കുന്ന ചില ഗ്രാമീണ സ്ഥലങ്ങളിലെന്നപോലെ മെഡിക്കൽ പരിചരണ സംവിധാനങ്ങളും ആക്സസ് ചെയ്യാവുന്നതാണ് സാധാരണഗതിയിൽ ഒരു സാധാരണ വികസന പശ്ചാത്തലത്തിൽ തന്നെ എത്ര ഗ്രാമീണ ഗ്രാമങ്ങളിൽ ചില മെഡിക്കൽ സൌകര്യങ്ങളോ നല്ല പ്രൊഫഷണലുകളോ ഉണ്ട് അതിനാൽ ദുരന്തസമയത്ത് അത്തരം മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കുള്ള പ്രവേശനം പോലും ബുദ്ധിമുട്ടാണ് ഇൻഷുറൻസ് സ്കീമുകൾ വസ്തുവകകളുടെ നഷ്ടത്തിന്റെ ഭാരം വ്യാപിപ്പിക്കുന്നു ഇവിടെ ഒരു വികസ്വര രാജ്യങ്ങളിൽ ഇൻഷുറൻസ് എന്നത് നിങ്ങൾക്കറിയാവുന്ന ഒരു വലിയ കാര്യമാണ് അവിടെയാണ് അവർ അവരുടെ വീടും സ്വത്തുക്കളും അവരുടെ ജീവിതവും ഇൻഷ്വർ ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നു ബിസിനസ്സ് സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ ഞങ്ങൾ സ്വത്ത് നഷ്ടങ്ങളെയും ഉപജീവന മാർഗങ്ങളെയും കുറിച്ച് കാര്യമായി ഒന്നും നൽകുന്നില്ല ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സാമ്പത്തിക ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരാൾക്ക് ഇത് വളരെ പ്രധാനമാണ് ദുരന്തങ്ങളുടെ കാര്യത്തിൽ പോലും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ കഴിയുന്നിടത്ത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ച ഉണ്ടാകും ഡിസാസ്റ്റർ സൈക്കിളിന്റെ ഡേവിഡ് അലക്സാണ്ടേഴ്സ് ഡയഗ്രം അദ്ദേഹം ആഘാതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഒന്ന് ബിഫോർ ഇമ്പാക്റ്റും അടുത്തത് ആഫ്റ്റർ ഇമ്പാക്റ്റുമാണ് ബിഫോർ ഇമ്പാക്റ്റിൽ ലഘൂകരണത്തെക്കുറിച്ചും തയ്യാറെടുപ്പിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു ആഘാതത്തിന് ശേഷം ഞങ്ങൾ ഉടൻ തന്നെ പ്രതികരണത്തെയും വീണ്ടെടുക്കലിനെയും കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഇത് റിക്കവറി പ്രോസസ്സിനെ എങ്ങനെ വികസിപ്പിച്ചുവെന്ന് നിങ്ങളുമായി ബന്ധപ്പെട്ട എവിടെയോ അറിയേണ്ടതുണ്ട് കൂടാതെ റിക്കവറി പ്രോസസ്സിനെ സാധാരണ ഡെവലൊപ്മെന്റ് പ്രോസസ്സുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അവിടെയാണ് പിന്നീട് മിറ്റിഗേഷൻ നടപ്പിലാക്കേണ്ടത് ഇവിടെ ശാന്തവും ആഘാതത്തിന് മുമ്പുള്ള സാഹചര്യവും എമർജൻസി സിറ്റുവേഷൻ റീസ്റ്റോറേഷൻ സിറ്റുവേഷൻ റീകൺസ്ട്രക്ഷൻ സിറ്റുവേഷൻ എന്നിവയിൽ വളരെ നിശബ്ദവും ശാന്തവുമാണ് അതിനാൽ ഇത് ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ് ഒന്നും സംഭവിക്കാത്തപ്പോൾ ആളുകൾ എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അതിനായി എങ്ങനെ തയ്യാറെടുക്കണം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് അവർ ആകുലരായില്ല അതിനാൽ ആഘാതത്തിന് മുമ്പുള്ള സാഹചര്യങ്ങളിൽ പോലും പലർക്കും അത് എന്താണെന്ന് ചില സമയങ്ങളിൽ മനസ്സിലാകുന്നില്ല സംഭവിക്കാൻ പോകുന്നു എന്നാൽ വരൾച്ചയുടെ വശം നിങ്ങൾക്കറിയാവുന്നതുപോലെയുള്ള ചില സന്ദർഭങ്ങളിൽ തുടർച്ചയായ ദുരന്തങ്ങൾ നിങ്ങൾക്കറിയാം അതെ ചില തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്ന് അവർ കാണുന്നു അവിടെയാണ് ആഘാതത്തിന് ശേഷം ഞങ്ങൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നതും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ഇത് യഥാർത്ഥത്തിൽ ഈ 5 ഘട്ടങ്ങൾ എങ്ങനെയെന്ന് നോക്കേണ്ടതുണ്ട് അതിനനുസരിച്ച് ഏകോപിപ്പിക്കുകയും ആസൂത്രണം ചെയ്യുകയും വേണം അവിടെയാണ് ദുരന്തങ്ങളും വികസനവും ദുരന്തങ്ങളും വികസനവും അവിഭാജ്യ പ്രോസസ്സ് കളാണെന്ന് ഫ്രെഡറിക് കുനി ചൂണ്ടിക്കാണിച്ചത് അവ വ്യത്യസ്തമല്ല ദി പ്രോഗ്രഷൻ ഓഫ് വാൾനറബിലിറ്റി ഇത് ബെൻ വിസ്നറുടെതാണ് ഈ ചട്ടക്കൂടിന്റെ ധാരണയോടെയാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവർ പറയുന്നു ഇതിനെ പ്രഷർ ആൻഡ് റിലീസ് മോഡൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തതുപോലെ പവർ സ്ട്രക്ച്ചർസ് റിസോഴ്സ്സ് എന്നിവയിലേക്കുള്ള പരിമിതമായ പ്രവേശനത്തിന്റെ മൂലകാരണങ്ങൾ ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വ്യവസ്ഥകൾ രാഷ്ട്രീയ വ്യവസ്ഥകൾ സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയും ഈ മൂലകാരണങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡൈനാമിക് പ്രെഷറുകൾക്ക് ചില ആഡ് ഓൺ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉദാഹരണത്തിന് നമുക്ക് ഇന്സ്ടിട്യൂഷനൽ ട്രെയിനിങ് ഉചിതമായ കഴിവുകൾ പ്രാദേശിക നിക്ഷേപങ്ങൾ എന്നിവയുടെ സ്ഥാപനപരമായ അഭാവം ഉണ്ടാകുമ്പോൾ വിപണികൾ എങ്ങനെ ദൈനംദിന പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഉത്തരകൊറിയയുടെ ഉദാഹരണമെടുത്താൽ നിങ്ങൾക്കറിയാവുന്ന പത്രസ്വാതന്ത്ര്യവും ഉത്തരകൊറിയയിൽ സംഭവിക്കുന്നത് എങ്ങനെയെന്ന് ലോകം മുഴുവൻ അറിയുന്നില്ല ഇതുമായി എങ്ങനെ ആശയവിനിമയം നടത്തണമെന്ന് നിങ്ങൾക്കറിയാം പത്രസ്വാതന്ത്ര്യം പൊതുജീവിതത്തിലെ ധാർമ്മിക നിലവാരം ഇവയാണ് ദൈനംദിന പ്രക്രിയകളിൽ കൂടുതലും മറ്റ് വശങ്ങൾ സ്ഥൂലശക്തികൾ ജനസംഖ്യാപരമായ മാറ്റം ദ്രുതഗതിയിലുള്ള ജനസംഖ്യാ വ്യതിയാനം ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം മാറ്റപ്പെട്ട ചെലവുകൾ കടം തിരിച്ചടവ് കാരണം ഞങ്ങൾ ലോകബാങ്കിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും ധാരാളം വായ്പകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ കഴിയുന്നു ഈ പ്രത്യേക കടം എങ്ങനെ വർദ്ധിക്കുന്നു അത് പൌരന്റെ ജീവിതത്തിന്റെയും അവരുടെ ഉപജീവനത്തിന്റെയും ഭാരം വർദ്ധിപ്പിക്കുന്നു വ്യാവസായിക വികാസം നഗരങ്ങളുടെ ഭൌതിക വികാസം വനനശീകരണം എന്നിവ കാരണം വനനശീകരണം കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ ബാധിക്കുന്നു ഇത് വീണ്ടും ഡിആർആറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നത് നിങ്ങൾക്കറിയാം പലയിടത്തും കൃഷി മത്സ്യകൃഷിയായി മാറിയത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മൂലമാണ് അത് മണ്ണിന്റെ ഉൽപാദനക്ഷമതയും എങ്ങനെ കുറയ്ക്കും എന്നിരുന്നാലും ഒരു വ്യാവസായിക ഭൂവിനിയോഗത്തെക്കുറിച്ചും അത് ചുറ്റുമുള്ള മണ്ണിന്റെ പ്രകൃതിയെ എങ്ങനെ മലിനമാക്കുമെന്നതിനെക്കുറിച്ചും നിങ്ങൾ സംസാരിക്കുമെന്ന് സങ്കൽപ്പിക്കുന്നത് പോലെ ഇത് ഭൂവിനിയോഗത്തിനൊപ്പം പോകും എന്ന് മാത്രമല്ല അത് ഒരു പ്രധാന കാര്യമാണ് മാത്രമല്ല ഇത് ചില ഇനം മരങ്ങളെയും സസ്യജാലങ്ങളെയും ബാധിക്കുകയും ചെയ്യും ജന്തുജാലങ്ങൾ ഇത് സുരക്ഷിതമല്ലാത്ത അവസ്ഥകളിലേക്ക് എങ്ങനെ എത്തിച്ചേരുന്നു ആളുകൾ താമസിക്കുന്ന അപകടകരമായ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അപകടകരമായ സ്ഥലങ്ങൾ സുരക്ഷിതമല്ലാത്ത കെട്ടിടങ്ങൾ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുപക്ഷേ പല ദരിദ്ര രാജ്യങ്ങളിലും നിലവിലുള്ള ഘടനകൾ സംരക്ഷിക്കാൻ അവർക്ക് പണമില്ല ആളുകൾ സാധാരണയായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നു അപകടാവസ്ഥയിലുള്ള ഉപജീവനമാർഗങ്ങളും ഇന്നത്തെപ്പോലെ കുറഞ്ഞ വരുമാനമുള്ളവരും വെനസ്വേലയുടെ കാര്യമാണ് നോക്കുന്നത് സാഹചര്യം സാമ്പത്തിക സ്ഥിതി എന്നിവ ഗ്ലോബൽ തലത്തിൽ മുഴുവൻ സമൂഹത്തെയും തടസ്സപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾക്കറിയാം മാത്രമല്ല ഇത് ഒരു വശത്ത് പോലും എങ്ങനെയായിരിക്കുമെന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു സമ്പദ്വ്യവസ്ഥ മൊത്തത്തിൽ സമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു സാമൂഹിക ബന്ധങ്ങൾ അപകടസാധ്യതയുള്ള പ്രത്യേക ഗ്രൂപ്പുകൾ ഒരുപക്ഷേ ടാർഗെറ്റ് ഗ്രൂപ്പുകൾ പ്രാദേശിക സ്ഥാപനങ്ങളുടെ അഭാവം പൊതു പ്രവർത്തനങ്ങളെയും സ്ഥാപനങ്ങളെയും കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെയാണ് പ്രീപയേർഡ്നെസ്സ് കാരണം ഭൂരിപക്ഷം രാഷ്ട്രീയ സ്ഥാപനങ്ങളും ആശ്രയിക്കുന്നില്ല പ്രീപയേർഡ്നെസ്സ് പ്രോഗ്രാമിന് ഫണ്ട് നൽകുന്നില്ല കാരണം അത് കൂടുതൽ ദൃശ്യമാകില്ല കാരണം ദുരന്തം സംഭവിക്കുമോ ഇല്ലയോ എന്ന് അവർക്ക് ഉറപ്പില്ല എന്നാൽ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന പ്രോഗ്രാമുകൾ ദുരന്തത്തിന് ശേഷമുള്ളതാണ് അതെ ഞങ്ങൾ ഇത്രയധികം വീടുകൾ നിർമ്മിച്ചു ഞങ്ങൾ ഇത്രയധികം ബോട്ടുകൾ നൽകി ഇത്രയധികം ഉപജീവനമാർഗങ്ങൾ നൽകി എന്നാൽ പരിശീലന പരിപാടികൾ എന്തൊക്കെയാണ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പ്രീപയേർഡ്നെസ്സ് പ്രോഗ്രാമിന് ഞങ്ങളുടെ ബജറ്റ് എങ്ങനെ സമർപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാം പ്രാദേശിക രോഗങ്ങളുടെ വ്യാപനം അതിനാൽ സമൂഹത്തെ അപകടസാധ്യതയിലേക്ക് നയിക്കുന്നതിനുള്ള ക്രമീകരണം ഇതെല്ലാം സജ്ജീകരിക്കുന്നു തുടർന്ന് ഇത് പ്രകൃതിദത്ത അപകടങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന നിലവിലുള്ളതിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അവിടെയാണ് ഒരു പുഷ് ആൻഡ് പുൾ പ്രോസസ്സ് പ്രവർത്തിക്കുന്നത് അത് അപകടങ്ങളുടെ ഒരു വശമാണെന്ന് നിങ്ങൾക്കറിയാം ഒരു വശത്ത് ഇത് തുടർച്ചയായ ഡൈനാമിക് പ്രെഷർസ് സുരക്ഷിതമല്ലാത്ത അവസ്ഥയുടെ മൂലകാരണങ്ങൾ കൂടാതെ അവർ എങ്ങനെയാണ് സമ്മർദ്ദപൂരിതമായ സാഹചര്യം കൊണ്ടുവരുന്നത് ശുഭജ്യോതി സമദ്ദർ വിശദീകരിച്ചിരിക്കാം റിസ്ക്HxV അങ്ങനെയാണ് ഹസാർഡിനൊപ്പം വൾനിറബിലിറ്റി ചേർക്കുമ്പോൾ റിസ്ക് കോംപോണേന്റ് ദൃശ്യമാകുന്നത് 2005 മുതൽ 2015 വരെയുള്ള പ്രവർത്തനത്തിനുള്ള ഹ്യോഗോ ചട്ടക്കൂടിനെ കുറിച്ചും അവർ സ്ഥാപിച്ച 5 തത്വങ്ങളെ കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ചട്ടക്കൂടുകളിലേക്ക് വരാം ഒന്ന് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഡിആർആർ ഒരു ദേശീയവും പ്രാദേശികവുമായ മുൻഗണനയാണെന്ന് ഉറപ്പാക്കുക അത് നടപ്പിലാക്കുന്നതിനുള്ള ശക്തമായ സ്ഥാപനപരമായ അടിത്തറയാണ് അതിനാൽ ഇത് ഒരു ദേശീയ മുൻഗണന മാത്രമല്ല അത് ദേശീയവും പ്രാദേശികവുമായ മുൻഗണനയോടെ പോകേണ്ടതുണ്ട് ദുരന്തങ്ങൾ തിരിച്ചറിയുകയും വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എല്ലാ തലങ്ങളിലും സുരക്ഷിതത്വത്തിന്റെയും പ്രതിരോധശേഷിയുടെയും സംസ്കാരം കെട്ടിപ്പടുക്കാൻ അറിവും നവീകരണവും വിദ്യാഭ്യാസവും ഉപയോഗിക്കുക അതിനാൽ പ്രീപയേർഡ്നെസ്സ് പരിപാടികളിലൂടെ നമുക്ക് എങ്ങനെ സുരക്ഷിതത്വത്തിന്റെ ഈ സംസ്കാരം കെട്ടിപ്പടുക്കാം അടിസ്ഥാന ഘടകങ്ങൾ കുറയ്ക്കുക ഈ അടിസ്ഥാന കാരണങ്ങളെ കുറയ്ക്കുന്നതിന് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഒരു യൂണിറ്റിലോ ഒരു പ്രാദേശിക തലത്തിലോ മാത്രമല്ല വ്യത്യസ്ത സ്കെയിലുകൾ വ്യത്യസ്ത തലങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന എല്ലാ തലങ്ങളിലും ഫലപ്രദമായ പ്രതികരണത്തിനുള്ള ഡിസാസ്റ്റർ പ്രീപയേർഡ്നെസ്സ് ശക്തിപ്പെടുത്തുക 2015 മുതൽ 2030 വരെയുള്ള കാലയളവിലെ ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുള്ള ഹ്യോഗോ ഫ്രെയിംവർക്ക് ഫോർ ആക്ഷൻ സെൻഡായി ഫ്രെയിംവർക്ക് എന്നിവയെ പിന്തുടരുക കൂടാതെ ഈ മുഴുവൻ വ്യാപ്തിയും ലക്ഷ്യവും മാർഗനിർദ്ദേശ തത്വങ്ങൾക്കുള്ള ചില സ്ലൈഡുകളായി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ പ്രകൃതിദത്തവും മനുഷ്യനിർമിതവുമായ അപകടങ്ങളും അനുബന്ധ പാരിസ്ഥിതികവും സാങ്കേതികവും ജൈവപരവുമായ അപകടങ്ങളും അപകടസാധ്യതകളും മൂലമുണ്ടാകുന്ന ചെറുതും വലുതുമായ ഇടയ്ക്കിടെയുള്ളതും അപൂർവ്വവുമായ പെട്ടെന്നുള്ളതും സാവധാനത്തിലുള്ളതുമായ ദുരന്തങ്ങളുടെ അപകടസാധ്യതകൾക്ക് ഇത് ബാധകമാകും എല്ലാ തലങ്ങളിലുമുള്ള വികസനത്തിലും അതുപോലെ എല്ലാ മേഖലകളിലും ഉടനീളമുള്ള ദുരന്തസാധ്യതയുടെ മൾട്ടി ഹാസാർഡ് മാനേജ്മെന്റിനെ നയിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു ഇവിടെ നാം നമ്മുടെ മാനം ചലിപ്പിച്ചത് ഒരു പ്രത്യേക തരം ദുരന്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല അത് ഭൂകമ്പം മാത്രമല്ല വരൾച്ച മാത്രമല്ല സുനാമി മാത്രമല്ല അതുകൊണ്ട് ഇപ്പോൾ മൾട്ടി ഹാസാർഡ് സമീപനവും നോക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് 2013 ലെ ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കത്തിൽ മേഘവിസ്ഫോടനം വെള്ളപ്പൊക്കത്തിനും വെള്ളപ്പൊക്കം മണ്ണിടിച്ചിലിനും കാരണമായി അതിനാൽ അപകടസാധ്യതയുള്ള നിരവധി പ്രദേശങ്ങൾ ശരിയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഒരു കൂട്ടം ദുരന്തത്തെ മാത്രം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ അത് സൈറ്റ് തലത്തിലും നിർദ്ദിഷ്ട സൈറ്റ് തലത്തിലും പ്രാദേശിക തലത്തിലും എല്ലാ തലങ്ങളിലും വികസനത്തിൽ ദുരന്തസാധ്യതയുടെ മൾട്ടി ഹാസാർഡ് മാനേജ്മെന്റിനൊപ്പം പോകേണ്ടതുണ്ട് കൂടാതെ വിവിധ മേഖലകളും ഇതിന്റെ ഫലം എന്താണ് വ്യക്തികൾ ബിസിനസ്സുകൾ കമ്മ്യൂണിറ്റികൾ രാജ്യങ്ങൾ എന്നിവയുടെ സാമ്പത്തിക ശാരീരിക സാമൂഹിക സാംസ്കാരിക പാരിസ്ഥിതിക ആസ്തികൾ ജീവനോപാധികൾ ആരോഗ്യം എന്നിവയിലെ ഡിസാസ്റ്റർ സാധ്യതകളും നഷ്ടങ്ങളും ഗണ്യമായി കുറയ്ക്കുന്നു അതിനാൽ നമുക്ക് ഈ നഷ്ടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നതിന് അവർ ഈ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ലക്ഷ്യം സംയോജിതവും ഉൾക്കൊള്ളുന്നതുമായ നടപ്പാക്കലിലൂടെ പുതിയത് തടയുന്നതിനും നിലവിലുള്ള ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനും ഞങ്ങൾ സംസാരിക്കുന്നു ഇവയാണ് രണ്ട് പ്രധാന പദങ്ങളും ഇന്റഗ്രേറ്റഡ് ഡിആർആർ ഇൻക്ലൂസീവ് ഡിആർആർ സാമ്പത്തിക ഘടനാപരമായ നിയമ സാമൂഹിക ആരോഗ്യ സാംസ്കാരിക വിദ്യാഭ്യാസ പരിസ്ഥിതി സാങ്കേതിക രാഷ്ട്രീയ സ്ഥാപനപരമായ നടപടികളെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു അത് അപകടസാധ്യത എക്സ്പോഷർ ദുരന്തത്തിന്റെ അപകടസാധ്യത എന്നിവ തടയുകയും കുറയ്ക്കുകയും ചെയ്യുന്നു അതുവഴി പ്രതികരണത്തിനും വീണ്ടെടുക്കലിനുമുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കാനും അങ്ങനെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും കഴിയും അതിനാൽ 2030 ഓടെ ഗ്ലോബൽ ഡിസാസ്റ്റർ മരണനിരക്ക് കുറയ്ക്കണം എന്നതാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ 2020 നും 2030 നും ഇടയിൽ 5 നും 15 നും ഇടയിൽ ആഗോളതലത്തിൽ 1 ലക്ഷം മരണനിരക്ക് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം അതിനാൽ അവർ ചില ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ഈ ബാധിതരായ ആളുകളുടെ ഈ കുറവ് ജിഡിപിയുടെ കാര്യത്തിൽ നേരിട്ടുള്ള ഡിസാസ്റ്റർ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുക നിർണായക ഇൻഫ്രാസ്ട്രക്ചറിനുണ്ടാകുന്ന ഡിസാസ്റ്റർ നാശം അടിസ്ഥാന സേവനങ്ങളുടെ തടസ്സം എന്നിവയെക്കുറിച്ച് ഞങ്ങൾ വീണ്ടും സംസാരിക്കുന്നു കൂടാതെ ദേശീയവും പ്രാദേശികവുമായ ദുരന്തങ്ങളുള്ള രാജ്യങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ദേശീയ പ്രവർത്തനത്തെ പൂരകമാക്കുന്നതിന് മതിയായ സുസ്ഥിര പിന്തുണയിലൂടെ അന്താരാഷ്ട്ര സഹകരണം യഥാർത്ഥത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ ദേശീയ കർമ്മ പദ്ധതികൾക്ക് അന്താരാഷ്ട്ര സഹകരണവുമായി യഥാർത്ഥത്തിൽ എങ്ങനെ ബന്ധപ്പെടാം 2030 ഓടെ മൾട്ടി ഹാസാർഡ് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളിലേക്കും ദുരന്തസാധ്യത സംബന്ധിച്ച വിവരങ്ങളിലേക്കും പ്രവേശനത്തിന്റെ വർദ്ധനവും ലഭ്യതയും അതിനാൽ അവർ ഈ ലക്ഷ്യങ്ങൾ സജ്ജമാക്കി അപ്പോൾ പ്രവർത്തനത്തിന്റെ മുൻഗണനകൾ എന്തൊക്കെയാണ് നമ്പർ ഒന്ന് ആദ്യ ഘട്ടത്തിലെ ദുരന്തസാധ്യത മനസ്സിലാക്കൽ നമ്പർ 2 ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ശക്തിപ്പെടുത്തുക ദുരന്തസാധ്യത കൈകാര്യം ചെയ്യുക അപ്പോൾ മാനേജ്മെന്റിനെയും ഭരണവീക്ഷണത്തെയും എങ്ങനെ നോക്കാം പിന്നീട് പ്രതിരോധശേഷിയ്ക്കായി ദുരന്തസാധ്യത കുറയ്ക്കുന്നതിൽ നിക്ഷേപം നടത്തുക അതിനാൽ ഇവിടെയാണ് സാമൂഹികവും സാമ്പത്തികവുമായ വശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഫലപ്രദമായ പ്രതികരണത്തിനായി ദുരന്തനിവാരണ തയ്യാറെടുപ്പുകൾ വർദ്ധിപ്പിക്കുന്നതിനും വീണ്ടെടുക്കൽ പുനരധിവാസം പുനർനിർമ്മാണം എന്നിവയിലേക്ക് മികച്ച രീതിയിൽ വീണ്ടെടുക്കുന്നതിനും ഘടനാപരവും അല്ലാത്തതുമായ നടപടികൾ അനിവാര്യമാണ് അതിനാൽ അവർ സ്ഥാപിച്ച മുൻഗണനകളുടെ ഒരു കൂട്ടം ഇതാണ് അങ്ങനെയാണ് അവർ ഒരുതരം മാർഗനിർദ്ദേശ തത്വങ്ങൾ സ്ഥാപിക്കുന്നത് ഈ സമൂഹത്തെ മുഴുവൻ എങ്ങനെ ഇടപഴകാമെന്നും ബിൽഡ് ബാക്ക് എങ്ങനെ മെച്ചമായിരിക്കണമെന്നും സൃഷ്ടിക്കുന്നത് തടയുന്നതിനും നിലവിലുള്ള ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനുമായി ബിൽഡ് ബാക്ക് മെച്ചമായി നിങ്ങൾക്ക് അറിയാം അതിനാൽ അവരെ പിന്നിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താം അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ശാക്തീകരണത്തെക്കുറിച്ച് മുഴുവൻ ധാരണയും സംസാരിക്കുന്നത് അതിനാൽ ഡിഎഫ്ഐഡി പ്രതിരോധശേഷിയെ നിർവചിക്കുന്നു അതിനാൽ പ്രതിരോധശേഷി എന്ന വാക്ക് ഡിആർആറിന്റെ ഒരു പ്രധാന മാനമായി മാറിയിരിക്കുന്നു യുകെയുടെ അന്താരാഷ്ട്ര വികസനത്തിനുള്ള വകുപ്പായി DFID നിർവചിക്കുന്നത് ഇതാണ് ഭൂകമ്പങ്ങൾ വരൾച്ചകൾ അല്ലെങ്കിൽ അക്രമാസക്തമായ സംഘർഷങ്ങൾ എന്നിവ പോലുള്ള ആഘാതങ്ങളോ സമ്മർദ്ദങ്ങളോ നേരിടുമ്പോൾ അവരുടെ ദീർഘകാല സാധ്യതകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിതനിലവാരം നിലനിർത്തുകയോ പരിവർത്തനം ചെയ്യുകയോ ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള രാജ്യങ്ങളുടെയും കമ്മ്യൂണിറ്റികളുടെയും കുടുംബങ്ങളുടെയും കഴിവ് ഇത് പറയുന്നു അതിനാൽ അവരുടെ ദീർഘകാല പ്രതീക്ഷയിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നിട്ടും അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും ആ പ്രത്യേക സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ വന്ന മാറ്റം ഏത് തരത്തിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ ഞെട്ടൽ അവർക്ക് എങ്ങനെ സാധിക്കുമെന്ന് അറിയാൻ കഴിയും അവരുടെ ദീർഘകാല സാധ്യതകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ നോക്കാൻ ചില ഫ്രെയിംവർക്സ് കൂടിയുണ്ട് അത് ഞാൻ നമ്മെ കടത്തിവിടുന്നു സുസ്ഥിര ലിവേലിഹുഡ്സ് ഫ്രെയിംവർക് ആണത് 1999 ൽ ഡിഎഫ്ഐഡി ഇത് വീണ്ടും വികസിപ്പിച്ചെടുത്തു അത് മൂലധനത്തെ കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം അവയെ ഒരു അസറ്റ് ഫ്രെയിംവർക്ക് എന്നും വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം എങ്ങനെ ഉപയോഗിക്കുന്നു അവർ എങ്ങനെ ഉപയോഗിക്കുന്നു അവർ എങ്ങനെ അവരുടെ ഉപജീവനമാർഗ്ഗം നിർമ്മിക്കുന്നു എന്ന് ഞാൻ പറയും അവർ എങ്ങനെ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി എന്ന് നിങ്ങൾക്കറിയാം അവരുടെ കഴിവുകൾ കാരണം ചിലപ്പോൾ മനുഷ്യ മൂലധനം അവർക്ക് കൂടുതൽ പ്രാപ്യമാണെന്ന് നമുക്ക് പറയാം ചിലപ്പോൾ പ്രകൃതി മൂലധനം അതിനാൽ ആ രീതിയിൽ കമ്മ്യൂണിറ്റികൾ അവർക്കുള്ള ഏത് ശേഷിയിലും ഈ വിഭവങ്ങൾ ആക്സസ് ചെയ്യാൻ പ്രവണത കാണിക്കുന്നു അങ്ങനെയാണ് അവർ തങ്ങളുടെ ഉപജീവന അവസരങ്ങൾ നിലനിർത്തുന്നത് ഉദാഹരണത്തിന് ഘാനയിൽ സ്വർണ്ണ വിഭവം കൂടുതലുള്ള പക്ഷേ അത് ഒരു സമ്പന്ന രാജ്യമാണോ അതിനർത്ഥം അവിടെയാണ് ചില പരിമിതികൾ ഉള്ളതും പ്രകൃതിവിഭവങ്ങൾ പോലും ഉള്ളതും രാജ്യത്തിന് ഇപ്പോഴും ചില കഴിവുകളുടെ അഭാവം എങ്ങനെയെന്നും നിങ്ങൾക്ക് അറിയാവുന്ന കഴിവുകളെക്കുറിച്ചും സംസാരിക്കുന്നു അതിനാൽ ദുർബലതയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്തതുപോലെ ഈ കഴിവുകളെ സ്വാധീനിക്കുന്നതിന്റെ ഒരു കൊടുക്കൽ വാങ്ങൽ വശം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം കാരണം ഇവയാണ് അവൻ കൈകാര്യം ചെയ്യുന്നത് ഈ ഉറവിടങ്ങൾ ആക്സസ് ചെയ്യാൻ കമ്മ്യൂണിറ്റി കൈകാര്യം ചെയ്യുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ ദുർബലതയുടെ പശ്ചാത്തലം തന്നെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലം തന്നെ ഈ ആക്സസ് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന പ്രതിഭാസമായി പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിക്കുന്നില്ല ഇൻഫ്രാസ്ട്രക്ചറും സേവനങ്ങളും ഈ ആക്സസിന്റെ നേരിട്ടുള്ള സ്വാധീനം എങ്ങനെയുണ്ട് പിന്നെ ഭരണ സാഹചര്യം നയങ്ങൾ സ്ഥാപനങ്ങൾ അവ യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന പ്രോസസുകൾ അത് ഈ പ്രകൃതിദത്തവും മാനുഷികവും സാമൂഹികവും ഭൌതികവും സാമ്പത്തികവുമായ മൂലധനം മാത്രമല്ല കാരണം ആളുകൾ അവരുടെ ആസ്തികൾ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഉപജീവനമാർഗ്ഗം തിരഞ്ഞെടുക്കുന്നതുമായ സാംസ്കാരിക ഘടകങ്ങളും ശരിയാണെന്ന് ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഡിഎഫ്ഐഡികളുടെ റെസിലൻസ് ഫ്രെയിമിനെ കുറിച്ച് വിളിക്കുന്നു അതിനാൽ സന്ദർഭത്തെക്കുറിച്ചും മുഴുവൻ സിസ്റ്റത്തെക്കുറിച്ചും പ്രക്രിയകളെക്കുറിച്ചും സന്ദർഭം സംസാരിക്കുന്ന ആദ്യ ഭാഗമാണ് ഒന്ന് അവിടെയാണ് കോണ്ടെസ്റ് എവിടെയാണ് വുൾനിറബിലിറ്റി കോണ്ടെസ്റ് എവിടെ രാഷ്ട്രീയ സന്ദർഭം എവിടെ ജനസംഖ്യാപരമായ സന്ദർഭം എവിടെ സാമൂഹിക സന്ദർഭം ഭൂമിശാസ്ത്രപരമായി അത് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു ഏത് തരത്തിലുള്ള രാഷ്ട്രീയ സ്ഥാപനമാണ് ഈ ഫ്രെയിമുകൾ ഒരു സിസ്റ്റത്തിന്റെയോ പ്രോസസ്സിന്റെയോ ഭാഗമാണ് തുടർന്ന് അസ്വസ്ഥത എങ്ങനെ സമ്മർദ്ദമായും ആഘാതമായും വരുന്നു അവ എങ്ങനെ തുറന്നുകാട്ടപ്പെടുന്നു അവ എങ്ങനെ സെൻസിറ്റീവ് ആണ് ഇത് എക്സ്പോഷർ സെൻസിറ്റിവിറ്റി എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു ഒപ്പം അഡാപ്റ്റീവ് കപ്പാസിറ്റി അവർക്ക് ഇതിലേക്ക് എങ്ങനെ പൊരുത്തപ്പെടാം നിങ്ങൾക്ക് അറിയാവുന്ന ഈ അസ്വസ്ഥതകളോടുള്ള പ്രതികരണം ഇവിടെയാണ് അതിനാൽ മികച്ച രീതിയിൽ തിരിച്ചുവരിക തിരിച്ചുവരിക വീണ്ടെടുക്കുക എന്നാൽ മുമ്പത്തേക്കാൾ മോശമായി തകരുക അതിനാൽ ഈ സമ്മർദ്ദങ്ങളോടും ആഘാതങ്ങളോടും അവർ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് മുഴുവൻ ശേഷിയും നമ്മൾ സംസാരിക്കുന്ന രീതികൾ ഇവയാണ് അപ്പോൾ നമ്മൾ പ്രതിരോധശേഷിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമതായി എന്തിനുവേണ്ടിയുള്ള പ്രതിരോധം പ്രതിരോധശേഷി ആരാൽ പ്രതിരോധശേഷി എപ്പോൾ ഈ എല്ലാ ടൈം ഫാക്ടർ കോണ്ടെസ്റ് ഫാക്ടർ പൊസിഷൻ ഫാക്ടർ എന്നിവ വളരെ പ്രധാനമാണ് ഡിസാസ്റ്റർ പശ്ചാത്തലത്തിൽ പ്രോജക്ട് സൈക്കിളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രോഗ്രാമിംഗ് ഐഡന്റിഫിക്കേഷൻ മൂല്യനിർണ്ണയം ധനസഹായം നടപ്പാക്കൽ പരിണാമം എന്നിവയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 വശങ്ങളാണിത് അവരിൽ പലരും നോക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കാരണം പ്രോഗ്രാമിംഗിൽ ഇത് യഥാർത്ഥത്തിൽ സഹകരണത്തിനുള്ള പൊതു മാർഗ്ഗനിർദ്ദേശങ്ങളും തത്വങ്ങളും സജ്ജീകരിക്കുന്നു ഫോക്കസ് ഏരിയകളുടെ ഉടമ്പടി അതിനാൽ ഇത് പ്രോജക്റ്റ് ലേ നിർവചിക്കുകയും ചെയ്യും ഐഡന്റിഫിക്കേഷൻ അതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ അറിയാവുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ഞങ്ങൾ ഇവിടെ തിരിച്ചറിയും ഓഹരി ഉടമകളുടെ താൽപ്പര്യത്തിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അവർ എങ്ങനെ ആശയങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നു എങ്ങനെ തീരുമാനിക്കാം ഇവിടെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന മൂല്യനിർണ്ണയം അത് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഓഹരി ഉടമകളുടെ വീക്ഷണങ്ങളുടെയും പ്രസക്തികളുടെയും കണക്കുകൾ പരിഗണിക്കുക അതിന്റെ സാമ്പത്തിക ഭാഗത്തെക്കുറിച്ച് അത് സംസാരിക്കുന്നു ദിവസാവസാനം ഞങ്ങൾ ഫണ്ടിംഗ് വശം നോക്കേണ്ടതുണ്ട് ആരാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്രയുണ്ട് എങ്ങനെ കൊണ്ടുവരണം ക്രൌഡ് സോഴ്സിംഗിൽ നിന്നോ കമ്മ്യൂണിറ്റി സ്രോതസ്സുകളിൽ നിന്നോ എൻജിഒകളിൽ നിന്നോ എക്സ്റ്റേണലിൽ നിന്നോ എങ്ങനെ ധനസഹായം പിൻവലിക്കാം എന്നതിനാൽ ഇതെല്ലാം നോക്കിയാണ് പ്രധാനമായും സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കേണ്ടത് സൈക്കിളിന്റെ വിവിധ ഘട്ടങ്ങളിൽ അതിനാൽ ഒരാൾ ഇടനിലമായി അവലോകനം ചെയ്യണോ യോജിച്ച വിഭവങ്ങളെക്കുറിച്ചും ഈ ആസൂത്രിത പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ പോകുന്നുവെന്നും പറയുമ്പോൾ നടപ്പിലാക്കൽ അതിനാൽ ഇവിടെയാണ് നമ്മൾ മോണിറ്റർ പുരോഗതി കാണുകയും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യേണ്ടത് നിങ്ങൾ ചില പരിപാടികൾ ആരംഭിച്ചതായി സങ്കൽപ്പിക്കുക വീണ്ടും ഒരു ദുരന്തം സംഭവിച്ചതായി സങ്കൽപ്പിക്കുക അപ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെടണം മുഴുവൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഷെഡ്യൂളും എങ്ങനെയുണ്ട് അത് പൂർത്തിയാക്കിയ ശേഷം ഏത് തരത്തിലുള്ള പ്രോജക്ടുകൾ നേട്ടങ്ങൾ ആഘാതം അത് ഏത് തരത്തിലുള്ള പഠനങ്ങളാണ് ഉള്ളതെന്ന് നോക്കണം അതിനാൽ നിങ്ങൾക്കറിയാവുന്ന മറ്റ് പ്രോജക്റ്റുകളിലേക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് ഒരാൾക്ക് പഠിക്കേണ്ട പാഠങ്ങൾ ഇവയാണ് DRR ലെ സർക്കാർ റോളുകളും അവർ പട്ടികപ്പെടുത്തുന്നു അതിനാൽ ഇത് നിരവധി റോളുകൾ വഹിക്കുന്നു ഒന്ന് ഡിആർആർ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ദാതാക്കൾ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തര പ്രതികരണം ഒഴിപ്പിക്കൽ ഷെൽട്ടറുകൾ ആരോഗ്യ സംരക്ഷണ മേഖല എന്നിവ പരിപാലിക്കുക അപകടസാധ്യത ഒഴിവാക്കുന്നവർ എന്ന നിലയിൽ പൊതു ഇൻഫ്രാസ്ട്രക്ചറിലെ നിക്ഷേപങ്ങൾ പാരിസ്ഥിതിക അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ ഈ പൊതു അടിസ്ഥാന സൌകര്യങ്ങളെല്ലാം ഈ അപകടങ്ങളിൽ നിന്ന് അവർക്ക് എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും സ്വകാര്യമേഖലയുടെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണത്തിന്റെ ഒരു നിയന്ത്രകൻ എന്ന നിലയിൽ ദുരന്തത്തിനായി നിരവധി ഏജൻസികൾ മുന്നോട്ടുവരുന്നത് ഒരു ബിസിനസ്സായി മാറിയേക്കാം എന്നാൽ ഇത് എങ്ങനെ നിരീക്ഷിക്കണം എങ്ങനെ നിയന്ത്രിക്കാം എന്ന് ഒരു സർക്കാർ നോക്കേണ്ടതുണ്ട് പൊതുവിദ്യാഭ്യാസവും തയ്യാറെടുപ്പും ബിസിനസ് തുടർച്ചയും അവിടെയാണ് കൂട്ടായ പ്രവർത്തനത്തിന്റെയും സ്വകാര്യമേഖലാ പ്രവർത്തനത്തിന്റെയും പ്രമോട്ടർമാർ കോർഡിനേറ്റർമാർ എന്ന നിലയിൽ അവർ മൾട്ടി സ്റ്റേക്ക്ഹോൾഡർ പ്രവർത്തനങ്ങളുടെയും DRR പങ്കാളിത്തത്തിന്റെയും കോർഡിനേറ്റർമാരാണ് അതിനാൽ ഇത് പൊതുമേഖല മാത്രമല്ല പൊതു സ്വകാര്യ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ ഏകോപനം കൂടിയാണ് അപ്പോൾ സർക്കാർ എങ്ങനെയാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മുഴുവൻ ചക്രം എങ്ങനെ വരുന്നു ഉദാഹരണത്തിന് ഒരു ഇവന്റിൽ നിന്ന് സംസാരിക്കുന്ന സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ട് കൂടാതെ വ്യത്യസ്ത ഡാറ്റാ സെറ്റുകൾ വിശ്വസനീയമായി രൂപപ്പെടുന്ന ഒരു സാങ്കേതിക ഇൻപുട്ടുകളും ഉണ്ട് അതിനാൽ ഇവിടെയാണ് അതിന്റെ കോഗ്നിഷൻ ഭാഗം ഇവിടെയാണ് വിശ്വസനീയമായ ഉറവിടങ്ങൾ പ്രൊഫഷണൽ വിവേചനാധികാരത്തെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ നൽകുന്നത് പ്രാദേശിക ഘടകങ്ങൾ വ്യക്തിത്വങ്ങൾ തൊഴിൽ സാധ്യതകൾ ഇറക്കം അങ്ങനെ ഇവയെല്ലാം പ്രൊഫഷണൽ വിവേചനാധികാരവും താൽപ്പര്യവും പൊതുവും സ്വകാര്യവും കാരണം ഒരു ആന്തരിക ഗ്രൂപ്പുകൾ അംഗീകൃത പ്രതിപക്ഷ ഗ്രൂപ്പുകൾ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ എന്നിവയുണ്ട് അതിനാൽ എന്തെങ്കിലും നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എല്ലായ്പ്പോഴും ഒരു ജനാധിപത്യത്തിലാണ് പരിസ്ഥിതി വ്യത്യസ്ത എതിർപ്പുകൾക്ക് വ്യത്യസ്ത പദമുണ്ട് അതിൽ വ്യത്യസ്ത പങ്കാളിത്തമുണ്ട് മാത്രമല്ല നിയമപരമായ പരിമിതികളുള്ള സ്ഥാപനപരമായ ഘടകങ്ങളിലും നിങ്ങൾക്കറിയാവുന്ന പ്രോസസ്സിലും ധാരാളം സമ്മർദ്ദങ്ങളുണ്ട് രാഷ്ട്രീയ അധികാരവും പ്രൊഫഷണൽ നൈതികതയും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രോസസ്സിൽ അവർ എങ്ങനെ സംഭാവന ചെയ്തിട്ടുണ്ട് സാമ്പത്തിക സാഹചര്യം സാമ്പത്തിക വശം ചെലവ് പ്രവണതകൾ രാഷ്ട്രീയമായി നിർണ്ണയിക്കപ്പെടുന്നവ കാരണം ചിലപ്പോൾ ഈ മുഴുവൻ ബിസിനസ്സ് പ്രോസസും വ്യത്യസ്തമായ മുൻഗണനകളിൽ പ്രവർത്തിക്കും അങ്ങനെയുള്ള ഒരു ജനാധിപത്യ സാഹചര്യത്തിൽ ഇത്തരം സാമ്പത്തിക വശം കൂടുതൽ സുതാര്യമാകേണ്ടത് അവിടെയാണ് യുക്തിസഹമാക്കൽ തീരുമാനങ്ങൾ വ്യാജമാക്കൽ പ്രത്യയശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് നിയമാനുസൃതമാണ് ഇത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇത് പരാജയത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ചും സംസാരിക്കുന്നു ഇവയെല്ലാം ഈ വ്യത്യസ്ത ഘടകങ്ങളെല്ലാം യഥാർത്ഥത്തിൽ തീരുമാനമെടുക്കുന്ന പ്രോസസ്സ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അല്ലാത്തവ പതിവ് അല്ലെങ്കിൽ പതിവ് അല്ലാത്തവ എന്നിവയിൽ മധ്യസ്ഥത വഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു ഈ ഫലങ്ങൾ പ്ലാനുകളുടെ രൂപത്തിലോ നിഷ്ക്രിയത്വത്തിന്റെ രൂപത്തിലോ അവ ഫലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു സാങ്കേതിക ഡാറ്റയ്ക്ക് സർവേകളിലും ചില സ്ഥാപനപരമോ രാഷ്ട്രീയമോ ആയ വശങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നത് പോലെയുള്ള ഒരു സർവേയുടെ രൂപത്തിലാകാം സ്കീമുകൾ അവർ സ്വീകരിച്ചതായി നിങ്ങൾക്കറിയാവുന്ന ലിംഗ വികസന പദ്ധതികൾ കൺസൾട്ടേഷൻ ബിസിനസ്സ് തുടർച്ച ബക്ക് പാസിംഗും അതുപോലെ ഉദ്ദേശിച്ചതും ഉദ്ദേശിക്കാത്തതുമായ അനന്തരഫലങ്ങൾ അതിനാൽ തീരുമാന പ്രോസസ്സിൽ വൈവിധ്യമാർന്ന ഇൻപുട്ടുകൾ വരുന്നത് ഇങ്ങനെയാണ് ഇത് വളരെ വലിയ മാനേജ്മെന്റ് ഘടനയാണ് കമ്മ്യൂണിറ്റി ഇടപെടലിനെക്കുറിച്ചും പങ്കാളിത്തത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നാമതായി ഒരാൾ രണ്ടെണ്ണം കാണേണ്ടതുണ്ട് ഒന്ന് നയിക്കപ്പെടുന്നു മറ്റൊന്ന് ഒരുതരം പങ്കാളിത്തമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ അത് പൂർണ്ണമായും നയിക്കപ്പെടുമ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കൃത്രിമം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്തപ്പോൾ നിങ്ങളെയും അതിനെയും നിയന്ത്രിക്കാൻ കാര്യക്ഷമതയുള്ള ഒരു ബാഹ്യ ഏജൻസി ഉണ്ട് അവിടെയാണ് അത് വഴികാട്ടിയാകുന്നത് അതേസമയം നിങ്ങൾ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ഫണൽ വിശാലമാക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുക അറിയിക്കുക കൂടിയാലോചിക്കുക സഹകരിക്കുക ശാക്തീകരിക്കുക അങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് തീരുമാനമെടുക്കുന്നതിനുള്ള കമ്മ്യൂണിറ്റി നിയന്ത്രണത്തിന്റെ അളവ് നിങ്ങൾക്ക് അറിയാവുന്നത് ശാക്തീകരണം ഇപ്പോഴും അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നിയന്ത്രണം ഉണ്ടായിരിക്കും ഇത് ഞാൻ പരിചയപ്പെടുത്താൻ ശ്രമിച്ച കുറച്ച് ചട്ടക്കൂടുകളാണെന്ന് ഞാൻ കരുതുന്നു വരുന്ന ക്ലാസിൽ ഞങ്ങൾ കുറച്ച് ടൂളുകളെക്കുറിച്ചും DRR നെക്കുറിച്ചും സംസാരിക്കും